അതിനാൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാറ്റുന്നതിലൂടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്തിമ ചർച്ചയിലേക്ക് അത് ഞങ്ങളെ എത്തിക്കുന്നു അതിനാൽ ഞങ്ങൾ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കും വിശാലമായി രണ്ട് ക്ലാസുകളുണ്ട് ഒന്നിനെ സബ് ഡൊമെയ്ൻ എന്നും മറ്റൊന്നിനെ ഫുൾ ഡൊമെയ്ൻ എന്നും വിളിക്കുന്നു അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ട പൾസ് ഫംഗ്ഷൻ ശരിയാണ് അതിനാൽ പൾസ് ശരിയായിരുന്നു അത് ഇവിടെ 0 ഉം ഇവിടെ 1 ഉം ആണ് അതിനാൽ ഈ അടിസ്ഥാന ഫംഗ്ഷൻ മുഴുവൻ ഡൊമെയ്നിലെയും ചില ഡൊമെയ്നുകളിൽ മാത്രം പൂജ്യമല്ല അത് എല്ലായിടത്തും പൂജ്യമല്ല അതിനാലാണ് ഈ വാക്ക് സ്വയം വിശദീകരിക്കുന്നത് അതിനാലാണ് ഇതിനെ സബ് ഡൊമെയ്ൻ ബേസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് അതിനാൽ ഒരു പൾസിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ചത് ചെയ്യാൻ കഴിയും അതിനാൽ ഇവ ടെയ്ലർ സീരീസ് പോലെയാണ് ട്രെയിലർ സീരീസ് സ്ഥിരാങ്കത്തിന്റെ ആദ്യ പദമാണിത് അടുത്തത് ലീനിയർ റൈറ്റ് ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ ത്രികോണാകൃതിയിലുള്ള ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഇത് ഒരു അടിസ്ഥാന ഫംഗ്ഷനാണ് മറ്റേ അടിസ്ഥാന ഫംഗ്ഷൻ ചിലപ്പോൾ ഇങ്ങനെയും മറ്റും ആകാം അതിനാൽ ഇവ മറ്റൊരു ക്ലാസ് ആണ് അതിനാൽ ഇത് അങ്ങനെയാണ് ഇത് ബേസ് ഫംഗ്ഷൻ എ ബേസിസ് ഫംഗ്ഷൻ ബി ബേസിസ് ഫംഗ്ഷൻ സി അതിനാൽ ഇവ നിർമ്മിക്കുന്ന രീതി വളരെ സമർത്ഥമാണ് ഇത് 1 ഉള്ള സ്ഥലം മറ്റേ അടിസ്ഥാന ഫംഗ്ഷന് ഒരു മൂല്യം 0 ഉണ്ട് അതുപോലെ ഈ ഫംഗ്ഷൻ ഇവിടെ ഒന്നാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്റെ ഡ്രോയിംഗ് കുറച്ച് മോശമാണ് പക്ഷേ ഈ 0 വരുമെന്ന് കരുതുന്നു ഇവിടെയും സമാനമായി ഇതിന് പൊരുത്തപ്പെടണം അതിനാൽ a ഫസ്റ്റ് ബേസ് ഫംഗ്ഷൻ b എന്നത് രണ്ടാമത്തെ ബേസ് ഫംഗ്ഷൻ c മൂന്നാമത്തെ ബേസ് ഫംഗ്ഷൻ എന്നിങ്ങനെ അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ആണെങ്കിൽ നമുക്ക് അടിസ്ഥാന ഫംഗ്ഷൻ a അടിസ്ഥാന ഫംഗ്ഷൻ d എന്നിവ എടുക്കാം ഞാൻ ഈ രണ്ട് അടിസ്ഥാന ഫംഗ്ഷനുകൾ ചേർത്താൽ ഫലം എങ്ങനെയായിരിക്കും അതിനാൽ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ വരെ പോകാം അതിനാൽ ഞാൻ a b എന്നിവ ശരിയാക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ഈ ഫംഗ്ഷൻ b 0 ശരിയാണെന്ന് തോന്നും ഞാൻ ഈ പോയിന്റിൽ വരുമ്പോൾ ഈ ആൾ ഇങ്ങനെ പോകും b ഇപ്പോഴും 0 ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ അത് വീണ്ടും 1 ആകാൻ പോകുന്നു അതിനാൽ ഇതാണ് ഞാൻ ഈ ആളെയും ഈ ആളെയും ചേർക്കുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ലൈൻ ലഭിക്കാൻ പോകുന്നു ഈ രണ്ട് കർവുകളും അവർ ഒരു സ്ഥിരാങ്കത്തിലേക്ക് ചേർക്കാൻ പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും തുടർന്ന് ഞാൻ താഴേക്ക് പോകുമ്പോൾ അത് 0 വരെ ഇത് പിന്തുടരും കാരണം അടിസ്ഥാന ഫംഗ്ഷൻ a ഇപ്പോൾ 0 ആണ് y യുടെ ഫംഗ്ഷനായി അടിസ്ഥാന ഫംഗ്ഷൻ a പോലെയുള്ള എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ചെയ്യുന്നുവെന്ന് കരുതി എനിക്ക് ഈ ആശയം വിപുലീകരിക്കാൻ കഴിയും y യുടെ ഫംഗ്ഷനായി നമുക്ക് b ചോയ്സ് അടിസ്ഥാന ഫംഗ്ഷൻ a തിരഞ്ഞെടുക്കരുത് അടിസ്ഥാന ഫംഗ്ഷൻ ബിയുടെ 1 2 ഇരട്ടി മൂല്യം നമുക്ക് നൽകാം ഈ മനുഷ്യൻ എങ്ങനെ കാണപ്പെടും അതിനാൽ ഇവിടെയാണ് ശരി അടിസ്ഥാന ഫംഗ്ഷൻ എ ഇതുപോലെയാണ് അടിസ്ഥാന ഫംഗ്ഷൻ ബി ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഈ രണ്ട് അടിസ്ഥാന ഫംഗ്ഷനുകൾ സംയോജിപ്പിക്കുകയാണ് പക്ഷേ മറ്റൊരു ഉയരം അപ്പോൾ അത് ഇപ്പോൾ എങ്ങനെയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ മൂല്യം വലതുവശത്ത് പിന്തുടരും അപ്പോ ഇങ്ങിനെയൊക്കെ വായിക്കാൻ പോകുന്നു ഈ ഉയരം 2 ആക്കണമെന്ന് നിർബന്ധിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പോകും നേർരേഖ അതിനാൽ ഫംഗ്ഷന്റെ ഈ പോയിന്റിലെ മൂല്യം 2 ആയിരിക്കും കാരണം ഈ ഘട്ടത്തിൽ fa 0 ഉം fb 2 ഉം ആണ് അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് 2 തവണ fb ആണ് അതിനാൽ ഈ ആൾ മുകളിലേക്ക് പോകും എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങും അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ ഈ മൂന്ന് വിഭാഗങ്ങളെ നിങ്ങൾ എന്ത് വിളിക്കും അവ രേഖീയമാണ് അതിനാൽ ഞാൻ ചെയ്തത് ഈ ഫംഗ്ഷനെ പീസ് വൈസ് ലീനിയർ ഏകദേശം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു എന്നതാണ് അതിനാൽ ഞാൻ ഇപ്പോൾ ഏകദേശം കണക്കാക്കുന്ന എന്റെ പ്രവർത്തനം തുടർച്ചയായതാണ് മുമ്പ് പൾസ് ബേസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ പ്രകടിപ്പിക്കുന്ന എന്റെ പ്രവർത്തനം തുടർച്ചയായിരുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ ഒരു തുടർച്ചയായ അടിസ്ഥാന ഫംഗ്ഷനിലേക്ക് മാറിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും വ്യത്യസ്തമല്ല അത് സുഗമമല്ല പക്ഷേ ഇത് പൾസിനേക്കാൾ മികച്ചതാണ് ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട വില ഒരു മി എൻ കണക്കാക്കുന്നതിന് അൽപ്പം കൂടുതൽ ജോലി ആവശ്യമായി വരും നേരത്തെ ന്യൂമറേറ്ററിൽ എന്റെ ജി വെറും 1 ആയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇപ്പോൾ സംയോജിപ്പിക്കുന്നത് വളരെ ലളിതമാണ് ഇത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ ആശയം വിപുലീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ലൈനുകൾ കൈകാര്യം ചെയ്യേണ്ടതില്ല പകുതി കോസൈനുകൾ ഇവ നിങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനമാകാം അതിനാൽ അവ അവസാനമായി സബ് ഡൊമെയ്ൻ ബേസ് ഫംഗ്ഷനെക്കുറിച്ചാണ് പൂർണ്ണ ഡൊമെയ്ൻ അടിസ്ഥാന ഫംഗ്ഷനുകൾ ഉണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ അവ വരിയിൽ പൂജ്യമല്ല നിങ്ങൾ എല്ലാവരും എഞ്ചിനീയറിംഗിന്റെ ഒന്നാം വർഷത്തിൽ പഠിച്ച വളരെ ജനപ്രിയമായ ഒരു ഫുൾ ഡൊമെയ്ൻ കോസിനോ കോഷോ വേണ്ടിയുള്ള എന്തെങ്കിലും ഊഹങ്ങൾ വിദ്യാർത്ഥി മുഴുവൻ ഡൊമെയ്ൻ പൂർണ്ണ ഡൊമെയ്ൻ അർത്ഥമാക്കുന്നത് ഡൊമെയ്നിൽ എല്ലായിടത്തും പൂജ്യമല്ല എന്നതാണ് അടിസ്ഥാന ഫംഗ്ഷൻ സിങ്ക് കൂടുതൽ സങ്കീർണ്ണമായ ഒന്ന് വിദ്യാർത്ഥി കോഷ് സൈൻ കോസ് എന്നിവയുടെ സംയോജനത്തെക്കുറിച്ച് അവയെ എന്താണ് വിളിക്കുന്നത് നിങ്ങൾ ഒന്നാം വർഷ സിംഗിൾസിലും സിസ്റ്റങ്ങളിലും പഠിച്ചതായി വിളിക്കപ്പെടുന്ന സൈൻ കോസ് എന്നിവയുടെ സംയോജനം എന്താണെന്ന് കൂടുതൽ സങ്കീർണ്ണമല്ല വിദ്യാർത്ഥി ഫോറിയർ ഫ്യൂറിയർ സീരീസ് ശരിയാണ് അതിനാൽ എനിക്ക് കുറച്ച് ഉണ്ടെങ്കിൽ എന്റെ അടിസ്ഥാന പ്രവർത്തനം ഇതുപോലെ എഴുതാം അതിനാൽ എനിക്ക് കാണാൻ കഴിയും ഫ്യൂറിയർ സീരീസ് വളരെ മനോഹരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അവർക്ക് ഒരു ഫംഗ്ഷൻ ഒരു ആനുകാലിക ഫംഗ്ഷൻ വളരെ നന്നായി കണക്കാക്കാൻ കഴിയും ബ്ലാ ശരി അതിനാൽ നിങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ കോസായി മാറിയിരിക്കുന്നു പാപം കോസും പാപവും എല്ലായിടത്തും പൂജ്യമല്ല ഇപ്പോൾ ഞാൻ അവയെ കോഫിഫിഷ്യന്റുകളാൽ പ്രതിനിധീകരിക്കുന്നു തീർച്ചയായും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു ഡിസി പദമുണ്ട് അതിനാൽ എന്റെ പരിഹാരം ആന്ദോളനമായി കാണപ്പെടുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് പൾസ് ബേസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പീസ്വൈസ് അപ്പ് ലീനിയർ തിരഞ്ഞെടുക്കുന്നത് അടുത്തതായി നമ്മൾ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കും അത് ഞാൻ അവബോധപൂർവ്വം ഇപ്പോൾ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ബേസ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കും അത് അടിസ്ഥാന ഫംഗ്ഷനോട് അടുത്തായിരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ യഥാർത്ഥ പരിഹാരം sinusoidal ആണെങ്കിൽ മൂലധനം N ന്റെ ചെറിയ മൂല്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും അതെ അവയെ റൂട്ട് കൊണ്ട് വിഭജിച്ചിരിക്കുന്നു അതായത് r എന്ന പദം നിലനിൽക്കും നിങ്ങളുടെ ന്യൂമറേറ്ററിന് y യുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ഗൌസ് ക്വാഡ്രേച്ചർ ഗൌസിയൻ ഗാസ് ലെജൻഡ്രെ ഏതെങ്കിലും ക്വാഡ്രേച്ചർ റൂൾ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ എനിക്ക് വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ക്വാഡ്രേച്ചർ റൂളിന്റെ ശക്തിയെ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിലമതിക്കും അത് വിലയിരുത്തിയാൽ മതി sin and cos അവിടെ ശരിയായത് എന്താണെന്ന് വിലയിരുത്താൻ എളുപ്പമാണ് അതിനാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രമാണിത് അതിനാൽ പ്രശ്നത്തെ ആശ്രയിച്ച് ഏത് അടിസ്ഥാന പ്രവർത്തനത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു കല കൂടിയാണിത് അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് ഈ പ്രത്യേക ആമുഖം സമഗ്ര സമവാക്യങ്ങളിലേക്ക് കൊണ്ടുവരാം